കഴിഞ്ഞ കുറച്ച് സെഷനുകളിൽ നമ്മൾ കോസ്റ്റ് വോളിയം ലാഭവിശകലനത്തെ കുറിച്ചും ബിഇപി വിശകലനത്തെ കുറിച്ചും വിവിധ തീരുമാനങ്ങൾ എടുക്കുന്ന സാഹചര്യത്തിൽ അത് എങ്ങനെ പ്രയോഗിക്കാമെന്നതിനെ കുറിച്ചും ചർച്ച ചെയ്തു V അനുപാതം ബിഇപി എന്നിങ്ങനെയുള്ള കണക്കുകൂട്ടലിനെക്കുറിച്ച് നമ്മൾ രണ്ട് ചിത്രീകരണങ്ങൾ നടത്തി കഴിഞ്ഞ സെഷനിൽ വിൽപ്പന മിശ്രിതം ഉൾപ്പെട്ട രണ്ട് കേസുകൾ നമ്മൾ ചെയ്തു അതിനാൽ BEP എന്നത് ഒരു ഉൽപ്പന്നത്തിന് മാത്രമല്ല ഒരു സെയിൽസ് മിക്സിനായി കമ്പ്യൂട്ടിംഗ് ചെയ്യുകയും വെയ്റ്റഡ് ശരാശരി PV അനുപാതം എന്നിവ ഉപയോഗിച്ച് ഏത് സെയിൽസ് മിക്സ് കൂടുതൽ അനുയോജ്യമാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്യുന്നു അതിനാൽ നമ്മൾ രണ്ട് തുകകൾ ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഒന്ന് ഗണേശ ലിമിറ്റഡിലും പിന്നീട് കേശവ് ലിമിറ്റഡിലും ഞങ്ങൾ രണ്ട് സെയിൽസ് മിക്സുകൾ പഠിക്കാൻ ശ്രമിക്കുകയും അവയുടെ അനുയോജ്യതയെ കുറിച്ച് അഭിപ്രായം പറയുകയും ചെയ്യുന്നു ഇന്ന് നമ്മൾ ഒരു പടി കൂടി മുന്നോട്ട് പോകും നമ്മൾ ഒരു ഡ്രാഫ്റ്റ് ബഡ്ജറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കും നമ്മൾ ഒരു തരം സെൻസിറ്റിവിറ്റി വിശകലനം നടത്തും ഇത് മാനേജ്മെന്റിന്റെ ഡിസൈനുകൾ അനുസരിച്ച് സാഹചര്യത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് അതിൽ ചില മാറ്റങ്ങൾ ഉൾപ്പെടുത്തുക അതിനനുസരിച്ച് ലാഭവിവരം എങ്ങനെ മാറും ഇതാണ് നമ്മൾ പഠിക്കേണ്ടത് നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് കിട്ടിയെന്ന് കരുതുന്നു ഇല്ലെങ്കിൽ ദയവായി പ്രിന്റൌട്ട് ഉടൻ എടുത്ത് എന്നോടൊപ്പം ഇരുന്നു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുക അതിനാൽ സത്വാഹൻ എന്റർപ്രൈസസ് ഒരു കരട് ബജറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അതിനാൽ അവർ 10000 യൂണിറ്റ് ബജറ്റ് ഉണ്ടാക്കി വിൽപ്പന വില 30 ആണ് നേരിട്ടുള്ള മെറ്റീരിയൽ 8 ലേബർ 6 വേരിയബിൾ ഓവർഹെഡുകൾ മണിക്കൂറിൽ 1 എന്ന നിരക്കിൽ നൽകിയിരിക്കുന്നു അതിനാൽ മൊത്തം വേരിയബിൾ ചെലവ് 15 ആണ് ഒരു യൂണിറ്റിന്റെ സംഭാവനയും 15 ആണ് ഞാൻ ഇത് കുറച്ച് താഴേക്ക് കുറക്കട്ടേ ഇപ്പോൾ ഇവിടെ ആകെ വേരിയബിൾ ചെലവ് 15 ഉം യൂണിറ്റിന് സംഭാവന 15 ഉം ആണ് നിലവിലെ ബജറ്റ് പ്രകാരം ഇത് സംഭാവനയായി നൽകിയിരിക്കുന്നു അതിനാൽ ഇത് 150000 ബജറ്റ് വിഹിതം നൽകുന്നു കാരണം 10000 യൂണിറ്റുകൾ 15 ആയി എന്ന് വച്ചാൽ 150 എന്നാണ് അർത്ഥമാക്കുന്നത് അവരുടെ ബഡ്ജറ്റിലെ നിശ്ചിത ഓവർഹെഡുകൾ 140 ആണ് അവർക്ക് ലാഭം 10000 മാത്രം ഇപ്പോൾ സ്വാഭാവികമായും മാനേജ്മെന്റ് കുറഞ്ഞ ലാഭത്തിൽ സന്തുഷ്ടരല്ല അവർക്ക് കൂടുതൽ അനുയോജ്യമായ ഒരു തന്ത്രവും മികച്ച ബിസിനസ്സ് ചെയ്യുന്നതിനുള്ള മികച്ച മാർഗവും വേണം അതിനാൽ മെച്ചപ്പെട്ടതോ ഉയർന്നതോ ആയ ലാഭ കണക്കുകളുള്ള ഇതര ബജറ്റുകൾ കൊണ്ടുവരാൻ അവർ ഒരു വർക്കിംഗ് പാർട്ടിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ വർക്കിംഗ് പാർട്ടി ഇനിപ്പറയുന്ന നിർദ്ദേശങ്ങളുമായി തിരികെ റിപ്പോർട്ട് ചെയ്യുന്നു അവർ ആവശ്യപ്പെടുന്നത് ബജറ്റ് ലാഭം 25000 ആകണമെന്നാണ് ഇപ്പോൾ കമ്പനി പരസ്യത്തിനായി 28500 ചിലവഴിക്കണമെന്നും വിൽപ്പന വില 32 ആക്കണമെന്നും അവർ നിർദ്ദേശിക്കുന്നു അതിനാൽ നിലവിലെ വിൽപ്പന വില 30 ആയിരുന്നത് 32 ആയി വർദ്ധിപ്പിക്കും വിൽപ്പന അളവും 12000 ആയി ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനാൽ നിലവിലെ 10000 ൽ നിന്ന് വിൽപ്പന അളവ് 12 ആയി വർദ്ധിക്കും ഇപ്പോൾ അവർക്ക് അവരുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അവർക്ക് 10 ശേഷി മാത്രമേയുള്ളൂ അത് 12 ആയി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഉൽപന്നത്തിന്റെ ഓരോ യൂണിറ്റിനും എടുക്കുന്ന സമയം കുറയ്ക്കുന്നതിന് ഒരു ശമ്പളവും ഉൽപ്പാദനക്ഷമതയും വാഗ്ദാനം ചെയ്യാൻ നിർദ്ദേശിക്കുന്നു അതിനാൽ കൂടുതൽ കൂലി നിരക്ക് നൽകുകയും കൂലി നിരക്ക് 4 ആയി വർദ്ധിപ്പിക്കുകയും ചെയ്താൽ അവരുടെ നിലവിലെ കൂലി നിരക്ക് 3 ആണെന്ന് നിങ്ങൾക്ക് കാണാം 2 മണിക്കൂറിന് 3 എന്ന നിരക്കിൽ അവർക്ക് 6 ലഭിക്കുന്നു ഇപ്പോൾ ജീവനക്കാർക്ക് മികച്ച ഡീൽ നൽകാനും അവരുടെ വേതന നിരക്ക് 4 ആയി വർദ്ധിപ്പിക്കാനും നമ്മൾ ആഗ്രഹിക്കുന്നു മണിക്കൂർ വേരിയബിൾ ഓവർഹെഡ് നിരക്ക് അതേപടി തുടരും ഇപ്പോൾ ഈ മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയതിന് ശേഷം നിങ്ങൾ ഇതര ബജറ്റ് നൽകണം അത് ശരിയാണ് ഇപ്പോൾ എന്നോടൊപ്പം ഇത് ചെയ്യാൻ തുടങ്ങൂ നിങ്ങൾ ഇപ്പോൾ എങ്ങനെ തുടങ്ങും മനസിലാക്കാൻ എളുപ്പത്തിനായി ഞാൻ നിങ്ങൾക്കായി ഒരു ഘടന വരച്ചിരിക്കുന്നു ഒന്നാമതായി നിലവിലെ ഡ്രാഫ്റ്റ് ശരിയായ ഫോർമാറ്റിൽ രേഖപ്പെടുത്തുക അതിനാൽ അവർ ഇത് ഒരു നിലവിലെ ഡ്രാഫ്റ്റായി നൽകിയിരിക്കുന്നു നമുക്ക് ഇത് ശരിയായ ഫോർമാറ്റിൽ excel ൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം തുടർന്ന് നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ ഉൾപ്പെടുത്താം ആദ്യ കരട് സംഖ്യ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഘടന വരയ്ക്കുക അതിന്റെ യൂണിറ്റ് 10000 ആണ് വിൽപ്പന വില 30 വേരിയബിൾ ചെലവ് 8 ഉം 6 ഉം 1 ഉം ആണ് അതായത് മൊത്തം 15 ഓരോ യൂണിറ്റ് അടിസ്ഥാനത്തിൽ ഉള്ള സംഭാവനയും 15 ആണ് 30 ൽ നിന്ന് 15 കുറയ്ക്കുക മൊത്തം സംഭാവന 150 140 ഒരു എഫ്സി ആണ് ലാഭം 10000 എന്ന് ഇതിനകം നൽകിയിട്ടുണ്ട് പി വി അനുപാതം കണക്കാക്കുക അത് വില്പനയിൽ നിന്ന് ലഭിക്കുന്ന സംഭാവനയാണെന്ന് നിങ്ങൾക്ക് അറിയാം വാമൊഴിയായും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും 50 ശതമാനം ആണ് ബ്രേക്ക്ഈവൻ പോയിന്റ് എഫ്സി പിവി അനുപാതം അതിനാൽ 280000 യൂണിറ്റുകളിൽ ബ്രേക്ക്ഈവൻ പോയിന്റ് 9333 33 ആണ് അതിനാൽ അവ ബ്രേക്ക് ഈവൻ മുകളിൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ലാഭം വളരെ കുറവാണ് ഇപ്പോൾ അവരുടെ നിർദ്ദേശം ഉൾപ്പെടുത്തുക പരസ്യങ്ങൾക്കായി കുറച്ച് പണം ചിലവഴിക്കുന്ന മാറ്റങ്ങൾ വരുത്തുക വിൽപ്പന വില വർദ്ധിപ്പിക്കുക തുടങ്ങിയവയും പുതുക്കിയ ബജറ്റ് കണക്കാക്കുകയും ചെയ്യുക പുതിയ യൂണിറ്റുകളുടെ എണ്ണം എന്താണ് 10000 ൽ നിന്ന് 12000 ആയി വർദ്ധിച്ചു വിൽപ്പന വില ഇപ്പോൾ 32 ആണ് നേരിട്ടുള്ള മെറ്റീരിയൽ ചെലവ് മാറാൻ പോകുന്നില്ല ഇത് 8 ൽ സ്ഥിരമായി തുടരും ലേബർ വേരിയബിൾ ഓവർഹെഡുകൾ എന്നിവ എഴുതുക പുതുക്കിയ ബജറ്റിന്റെ ലാഭം കണക്കാക്കുക ഞാൻ നിശ്ചിത ചെലവ് 140 ൽ നിന്ന് വർധിപ്പിക്കും ഇപ്പോൾ 168500 ലേക്ക് പോകും കാരണം നമ്മൾ 28500 പരസ്യച്ചെലവ് ചേർക്കും മെറ്റീരിയൽ അധ്വാനം ഓവർഹെഡുകൾ എന്നിവ നിങ്ങൾക്ക് കണക്കാക്കാൻ കഴിയും അവർ 25000 ലാഭമാണ് ലക്ഷ്യമിടുന്നതെന്ന് നമുക്കറിയാം ഇത് വളരെ വ്യക്തമായി നൽകിയിരിക്കുന്നു അത് 25000 ബഡ്ജറ്റ് ലാഭത്തിലേക്ക് നയിക്കും അതിനാൽ എങ്ങനെയും അവർ 25 ലാഭം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് വിസി യുടെ ഈ ഘടകങ്ങൾ കണക്കാക്കാൻ കഴിയുമോ ഇത് നിങ്ങൾക്ക് നേരിട്ട് കണക്കാക്കാൻ കഴിയുന്ന ഒരു നേരായ കണക്കുകൂട്ടലല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന 25 എന്ന ലാഭത്തിനായി നിങ്ങൾ തിരികെ പോകേണ്ടതുണ്ട് പുതിയ നിശ്ചിത ചെലവ് 168500 ആണ് അതിനാൽ മൊത്തം സംഭാവന 193500 ആണ് നിങ്ങൾക്ക് യൂണിറ്റുകളുടെ എണ്ണം അറിയാം അതിനാൽ നിങ്ങൾക്ക് ഒരു യൂണിറ്റ് 16 125 എങ്ങനെ ലഭിക്കും എന്ന് കണക്കാക്കാം കാരണം നിങ്ങൾ നൽകേണ്ട മൊത്തം സംഭാവന 193500 എന്നത് 12000 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് 16 125 ലഭിക്കും പുതിയ വില്പന വില 32 ആണെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ 32 ൽ നിന്ന് 16 125 കുറയ്ക്കുക അതായത് നിങ്ങളുടെ വേരിയബിൾ ചെലവ് 15 875 ആയിരിക്കണം ഇപ്പോൾ നിങ്ങൾക്ക് അത് പൊരുത്തപ്പെടുത്താൻ കഴിയുമോ ഡയറക്ട് മെറ്റീരിയൽ 8 ആയതിനാൽ ഇത് കഠിനമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു പുതിയ തൊഴിൽ ചെലവ് എന്താണ് ഉൽപ്പാദനം 10 ൽ നിന്ന് 12 ആക്കണമെന്നതിനാൽ അവർ തൊഴിൽ നിരക്ക് വർധിപ്പിച്ചു തൊഴിലാളികൾ മണിക്കൂറിന് 4 രൂപ വീതം നൽകുന്ന യൂണിറ്റുകളുടെ എണ്ണം തൊഴിലാളികൾ വർധിപ്പിക്കുന്നതിനാൽ ഇത് ശമ്പളവും ഉൽപാദനക്ഷമതയും ആണെന്ന് അവർ സ്വീകരിച്ചു അതിനാൽ നിങ്ങൾ 4 എടുക്കുകയാണെങ്കിൽ നിലവിലെ കണക്കുകൂട്ടൽ 2 ഗുണനം 3 ആയിരുന്നു നിങ്ങൾ ഇപ്പോൾ അതിനെ 2 ഗുണo 4 എന്നാക്കി അപ്പോൾ ഇത് 881 എന്നാകും ആകെ 17 ആകും എന്നാൽ മൊത്തം വേരിയബിൾ ചെലവ് 15 875 കവിയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അതിനാൽ ഇപ്പോൾ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യാം നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമോ കാരണം നേരിട്ട് മെറ്റീരിയൽ ചെലവ് മാറാൻ പോകുന്നില്ല അതായത് ലളിതമായ നേരിട്ടുള്ള മെറ്റീരിയൽ വിലയ്ക്ക് മാറ്റമില്ല തൊഴിൽ ചെലവിന്റെ കാര്യമോ അത് മാറുമോ നിരക്ക് ഇപ്പോൾ ഉയരുന്നതിനാൽ അത് 8 രൂപയിലേക്ക് പോകുമോ കാരണം നിലവിലെ കണക്കനുസരിച്ച് മണിക്കൂറുകളുടെ എണ്ണം കുറയണം കാരണം യൂണിറ്റിന് 2 മണിക്കൂറിന് 3 രൂപ ആണ് അധിക ഉൽപ്പാദനം കൈവരിക്കുന്നതിന് ഓരോ യൂണിറ്റും നിർമ്മിക്കാൻ എടുക്കുന്ന സമയം കുറയ്ക്കാൻ തൊഴിലാളികൾക്ക് കഴിയണമെന്നാണ് അവർ പറയുന്നത് അതായത് നമ്മൾ തൊഴിലാളികൾക്ക് ഒരു ശമ്പളവും ഉൽപ്പാദനക്ഷമതയും വാഗ്ദാനം ചെയ്യുന്നു കൂടാതെ അവരോട് മേലധികാരിയെ കാണാൻ പറയുന്നു നമ്മൾ നിങ്ങൾക്ക് കൂടുതൽ നിരക്ക് നൽകും നമ്മൾ നിരക്ക് 3 രൂപ 4 രൂപയായി വർദ്ധിപ്പിക്കുന്നു എന്നാൽ നിങ്ങൾ മണിക്കൂറുകളുടെ എണ്ണം 2 രൂപയിൽ നിന്നും 2 രൂപയിൽ താഴെയോ ക്ഷമിക്കണം രണ്ടു മണിക്കൂറോ അല്ലെങ്കിൽ രണ്ടു മണിക്കൂറിൽ താഴെയോ കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങൾക്ക് മണിക്കൂറിന് 4 രൂപ ലഭിക്കു ഇതൊരിക്കലും 2 ഗുണം 4 ആകില്ല ഇത് തീർച്ചയായും 2 ൽ താഴെയായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ആ കണക്ക് എങ്ങനെ കണക്കാക്കാനാകും നിങ്ങൾ ഇത് x ആയി കണക്കാക്കുക അത് 4 x ആയി ലഭിക്കും കാരണം തൊഴിൽ നിരക്ക് ഇപ്പോൾ 4 ആകും തൊഴിൽ ചെലവ് 2 ആണെന്ന് കരുതുക അത് 4 x ആയിരിക്കും വേരിയബിൾ ഓവർഹെഡുകളെ സംബന്ധിച്ചിടത്തോളം വേരിയബിൾ ഓവർഹെഡുകളെയും വേരിയബിൾ ഓവർഹെഡുകളുടെ നിരക്കിനെയും ഇത് ബാധിക്കില്ലെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒന്നിന്റെ ആകെ തുക മാറും കാരണം അത് 2 മണിക്കൂർ ആയതിനാൽ 2 അതിനാൽ പുതിയ നിരക്ക് എന്തായാലും ക്ഷമിക്കണം പുതിയ മണിക്കൂർ അതായത് x അത് 0 5 x ആയിരിക്കും അതിനാൽ 4 x 0 5 x അതായത് 4 5 x എന്നത് മൊത്തം അധ്വാനവും വേരിയബിൾ ഓവർഹെഡുകളും ആണ് ആകെ 15 875ൽ കൂടരുത് എന്ന് നമ്മൾക്കറിയാം അതിനാൽ 15 875ൽ നിന്ന് 8 കുറയ്ക്കുമ്പോൾ അത് 7 875 ആയിരിക്കണം ഇപ്പോൾ ഈ വിവരങ്ങൾ ഉപയോഗിച്ച് x ന്റെ പരിമാണം തിരികെ നൽകാൻ ശ്രമിക്കുക 4 x 0 5 x എന്നിങ്ങനെയുള്ള കണക്കുകൂട്ടൽ ഇവിടെ കാണിക്കാൻ ഞാൻ ശ്രമിച്ചു ആകെ 5 പോയിന്റ് 15 875 ആണെന്ന് നമ്മൾക്കറിയാം അതായത് 4 5 x എന്നത് 15 875 ന് തുല്യമാണ് അതിനാൽ നിങ്ങൾ ഇത് ഹരിച്ചാൽ നിങ്ങൾക്ക് x 1 75 ആയി ലഭിക്കും നേരത്തെ അവർ ഒരു യൂണിറ്റിന് 2 മണിക്കൂർ എടുത്തിരുന്നതായി നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ അവർ അത് വെട്ടിക്കുറയ്ക്കണം അതിനാൽ അവർ അത് 1 75 ആയി കുറച്ചു ഇപ്പോൾ 1 75 എന്നത് x ന്റെ പുതിയ മൂല്യമാണ് അതായത് 4 1 75 നെ 4 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് 7 ലഭിക്കും 1 75 നെ 0 875 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് 0 875 ലഭിക്കും അതിനാൽ നിങ്ങൾ ഈ 3 ന്റെ ആകെത്തുക എടുത്താൽ അത് 15 875 ആയി മാറുന്നു തുടർന്ന് എല്ലാ പൊരുത്തങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു അതിനാൽ അവർക്ക് ലക്ഷ്യ ലാഭം കൈവരിക്കാനും ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും തൊഴിലാളികൾക്ക് കൂടുതൽ പണം നൽകാനും നൽകിയിട്ടുള്ളതെല്ലാം ചെയ്യാനും കഴിയും അവർക്ക് യൂണിറ്റിന് മണിക്കൂറുകളുടെ എണ്ണം 2 ൽ നിന്ന് 1 75 ആയി കുറയ്ക്കാൻ കഴിയും അതാണ് ഞങ്ങൾ തൊഴിലാളികൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു ഓഫർ ശരി നിങ്ങൾ മണിക്കൂറുകളുടെ എണ്ണം 1 75 ആയി കുറച്ചാൽ നിങ്ങളുടെ നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾക്ക് ഈ കണക്കുകൂട്ടൽ നടത്താൻ കഴിയുമെങ്കിൽ മാനേജ്മെന്റ് വളരെ സന്തുഷ്ടരായിരിക്കും കാരണം അവർക്ക് 2 പോയിന്റിന്റെ 5 മടങ്ങ് ലാഭം ലഭിക്കുമെന്ന് ഇപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നു കമ്പനിയുടെ മൊത്തം വിൽപ്പന പോലും ഉയരുകയാണ് തൊഴിലാളികൾക്ക് കൂടുതൽ പണം ലഭിക്കുന്നതിനാൽ അവർക്ക് സന്തോഷമുണ്ട് അതിനാൽ ആദ്യം ഈ ശരിയായ കണക്കുകൂട്ടലുകളെല്ലാം കാണിക്കേണ്ടതുണ്ട് അതിനാൽ എല്ലാ കക്ഷികളും സന്തുഷ്ടരാണ് തീർച്ചയായും ഒരാൾ കൃത്യമായി നിർവ്വഹണം നടത്തേണ്ടതുണ്ട് ഉൽപ്പാദനക്ഷമത വർദ്ധിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ സമയം വെട്ടിക്കുറയ്ക്കുന്നു അതിനാൽ ചെലവ് വെട്ടിക്കുറയ്ക്കുകയും സംഭാവന വർദ്ധിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾക്ക് സംഭാവന വർദ്ധിച്ചതായി കാണാം നിങ്ങൾ കൂടുതൽ ലാഭം നേടുന്നുണ്ടെങ്കിലും സ്ഥിരമായ ചിലവിൽ വർദ്ധനവ് ഉണ്ട് ഇപ്പോൾ എന്താണ് ഒരു പുതിയ PVR ഇത് ഏതാണ്ട് സ്ഥിരമാണ് കാരണം ഇത് ചെറുതായി ഉയർന്നു കാരണം വില വർദ്ധിച്ചു 0 50 എന്നതാണ് പുതിയ BEP അത് ഉയരുമോ അതോ വീഴുമോ യഥാർത്ഥത്തിൽ പുതിയ BEP ഉയർന്നു ഇത് ഒരു നല്ല സൂചനയാണോ യഥാർത്ഥത്തിൽ അത്ര നല്ല ലക്ഷണമല്ല കാരണം കമ്പനി പുതിയ ഫിക്സഡ് കോസ്റ്റ് ചെയ്തു അതിനാലാണ് അവരുടെ BEP അൽപ്പം വർദ്ധിക്കുകയും യൂണിറ്റുകളുടെ കാര്യത്തിൽ BEP വർദ്ധിക്കുകയും ചെയ്തത് അതിനാൽ ഇത് അൽപ്പം അപകടസാധ്യതയുള്ള ഒരു പ്രൊപ്പോസൽ ആണ് അവർക്ക് അവരുടെ ലാഭക്ഷമത മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ കുറച്ച് കൂടുതൽ റിസ്ക് എടുക്കേണ്ടിവരും നിങ്ങൾക്ക് അത് ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ നമ്മൾ ഇത് ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം